ഈ പ്രഭാഷണത്തിൽ മറ്റ് ചിലത് പിന്തുടരാൻ ഞങ്ങൾ വ്യാവസായിക IoT അല്ലെങ്കിൽ IIoT യുടെ ചില അടിസ്ഥാന ആശയങ്ങളിലൂടെ കടന്നുപോകും ഈ പ്രഭാഷണത്തിൽ പ്രത്യേകമായി വ്യാവസായിക IoT യുടെ പിന്നിൽ ലാബ് സ്കെയിലിൽ വ്യാവസായിക IoT യുടെ അടിസ്ഥാന സജ്ജീകരണം എങ്ങനെ ഉണ്ടാക്കാം എന്നതിന് പിന്നിലെ ചില ആമുഖ പ്രചോദനാത്മക ആശയങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോകും അതിനാൽ വ്യാവസായിക IoT എന്തുകൊണ്ട് ആവശ്യമാണെന്ന് പ്രചോദിപ്പിക്കുന്നതിന് ഞങ്ങൾ ഈ വ്യത്യസ്ത ആശയങ്ങളിലൂടെ കടന്നുപോകും അതിനാൽ തുടക്കത്തിൽ നമുക്ക് വ്യത്യസ്ത വ്യാവസായിക ആപ്ലിക്കേഷൻ ഡൊമെയ്നുകൾ പരിഗണിക്കാം നിർമ്മാണ വ്യവസായങ്ങൾ കൃഷി ഖനനം ഗതാഗതം ലോജിസ്റ്റിക്സ് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ പോലുള്ള ഡൊമെയ്നുകൾ അതിനാൽ വ്യത്യസ്ത ആപ്ലിക്കേഷൻ ഡൊമെയ്നുകൾ ഉണ്ട് അതിനനുസരിച്ച് ഈ വ്യത്യസ്ത ഡൊമെയ്നുകൾ നിറവേറ്റുന്ന ധാരാളം വ്യവസായങ്ങളുണ്ട് അതിനാൽ അവർക്ക് അവരുടേതായ വ്യത്യസ്ത വ്യാവസായിക പ്രക്രിയകളുണ്ട് വ്യത്യസ്ത വ്യാവസായിക പ്രക്രിയകളുടെ അടിസ്ഥാന ആശയങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി മുൻ പ്രഭാഷണത്തിൽ ഐഒടിയുടെ സഹായത്തോടെ ഈ പ്രക്രിയകൾ എങ്ങനെ മെച്ചപ്പെടുത്താം അതിനാൽ ഈ വ്യത്യസ്ത പ്രക്രിയകളുടെ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വ്യാവസായിക IoT പരിഹാരങ്ങൾ എങ്ങനെ സഹായിക്കുമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തുടക്കത്തിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിഗണിക്കാം വിവിധ ഖനികളിൽ ഖനന വ്യവസായം ആരംഭിക്കാൻ നമുക്ക് ഉദാഹരണങ്ങൾ പറയാം ഉദാഹരണത്തിന് കൽക്കരി ഖനികളിൽ വ്യത്യസ്തമായ പ്രക്രിയകളുണ്ട് അവ അവിടെയുണ്ട് അവിടെയുള്ള ഖനന പ്രക്രിയകൾ വ്യത്യസ്ത സംഭവങ്ങൾ സംഭവിക്കുന്നത് നിരീക്ഷിക്കാനും തടയാനും കഴിയും ഉദാഹരണത്തിന് ഖനന പ്രക്രിയയിൽ രൂപം കൊള്ളുന്ന വ്യത്യസ്ത വാതകങ്ങളെ നിരീക്ഷിക്കുന്നത് കൽക്കരി ഖനികളിൽ വളരെ സാധാരണമാണ് ഉദാഹരണത്തിന് മീഥേൻ പോലെയുള്ള വ്യത്യസ്ത വാതകങ്ങളുണ്ട് മറ്റ് വാതകങ്ങൾ ഉദാഹരണത്തിന് ഖനന പ്രക്രിയയിൽ ഭൂഗർഭ ഖനികളിൽ അടിസ്ഥാനപരമായി രൂപം കൊള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് കൂടാതെ മറ്റു പലതും അതിനാൽ ഈ വാതകങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ വാതകങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ഈ വാതകങ്ങളിൽ പലതും അപകടകാരികളാകാം കാരണം ഉദാഹരണത്തിന് മീഥെയ്ൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് മരണത്തിന് കാരണമാകുമെന്ന് നിങ്ങളിൽ മിക്കവർക്കും ഇതിനകം അറിയാവുന്നതിനാൽ മീഥേൻ വളരെ ജ്വലിക്കുന്ന വാതകമാണ് അതിനാൽ ഈ വാതകങ്ങൾ വളരെ ദോഷകരമായ വാതകങ്ങളാണ് മറ്റ് വ്യത്യസ്ത വാതകങ്ങൾ അവിടെയുണ്ട് കൽക്കരി ഖനികളിലെ ഖനന പ്രക്രിയയിൽ പ്രത്യേകിച്ചും ഉൽപ്പാദിപ്പിക്കുന്ന ഈ വാതകങ്ങളുടെ അളവ് അല്ലെങ്കിൽ സാന്ദ്രത തുടർച്ചയായി നിരീക്ഷിക്കുന്നത് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ ഭൂഗർഭ ഖനികളിൽ തത്സമയം തുടർച്ചയായി വാതക നിരീക്ഷണം വളരെ പ്രധാനമാണ് അതനുസരിച്ച് വളരെ ദോഷകരമായ വാതകത്തിന്റെ സാന്ദ്രത ഒരു പരിധിയിലോ പരിധിയിലോ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഖനിത്തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ അലേർട്ടുകൾ സൃഷ്ടിക്കുന്നത് വളരെ പ്രധാനമാണ് നിയന്ത്രണ കേന്ദ്രം അതനുസരിച്ച് ഖനിത്തൊഴിലാളികളെയോ ഭൂമിക്കടിയിൽ ഉള്ളവരെയോ ഒഴിപ്പിക്കുന്നത് പോലെയുള്ള നടപടികൾ കൈക്കൊള്ളുക അതിനാൽ ഇതുപോലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഭൂഗർഭ ഖനികളിൽ മറ്റ് വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഉദാഹരണത്തിന് സ്ട്രാറ്റ ഒരു വീഴ്ച നിരീക്ഷണം അതിനാൽ നിങ്ങൾ കൽക്കരി ഖനനം ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം ഖനനം നടന്ന സ്ഥലത്തിന് മുകളിലുള്ള പാളികളോ മേൽക്കൂരയോ തകർന്നേക്കാം അതിനാൽ വേർതിരിച്ചെടുത്ത ഭാഗത്തിന് മുകളിലുള്ള ആ മേൽക്കൂരയുടെ നിരീക്ഷണം വളരെ പ്രധാനമാണ് അതിനാൽ മേൽക്കൂര തകർന്ന് ഖനന തൊഴിലാളികൾക്ക് അപകടമുണ്ടാക്കാം അതിനാൽ ഇതുപോലെ വ്യത്യസ്തമായ മറ്റ് ആപ്ലിക്കേഷനുകളും ഉണ്ട് അതിനാൽ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനായി IoT അല്ലെങ്കിൽ Industrial IoT പോലുള്ള വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ് അതിനാൽ ഭൂഗർഭ ഖനികൾ വാതക നിരീക്ഷണത്തിനുള്ള വ്യാവസായിക IoT ആപ്ലിക്കേഷനുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് അതിനാൽ ഇവിടെ ക്ലാസ് മുറിയിൽ തന്നെ വ്യത്യസ്ത സെൻസറുകളും IIoT സാങ്കേതികവിദ്യകളും ഉപയോഗിച്ച് ഗ്യാസ് നിരീക്ഷണത്തിന്റെ വളരെ ലളിതമായ ഒരു പ്രയോഗം നമുക്ക് നോക്കാം അതിനാൽ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ അതിനാൽ നമ്മൾ ഒരു IIoT നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനാൽ വ്യാവസായിക ഐഒടി എന്നാൽ വ്യത്യസ്ത വ്യാവസായിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഐഒടിയുടെ ഒരു പ്രത്യേക തരം ആപ്ലിക്കേഷനാണ് അതിനാൽ ഇവിടെ ഞാൻ ഖനന വ്യവസായം ഗ്യാസ് നിരീക്ഷണം അങ്ങനെ മറ്റൊരു വ്യവസായത്തിന് വ്യത്യസ്തമായ മറ്റ് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇവയുടെയെല്ലാം കാതൽ സെൻസിംഗ് ആക്ച്വേഷൻ നെറ്റ്വർക്കിംഗ് കണക്റ്റിവിറ്റി പ്രോസസ്സിംഗ് തുടങ്ങിയവയെക്കുറിച്ചാണ് ഗ്യാസ് നിരീക്ഷണത്തിന്റെ വളരെ ചെറിയ ഒരു പ്രയോഗം നമുക്ക് നോക്കാം കുറച്ച് വാതകങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന ഒരു ഗ്യാസ് സെൻസറാണിത് അതിനാൽ ഈ സെൻസറിന് അത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാനാകും തുടർന്ന് ഞങ്ങൾക്ക് ഒരു ആക്യുവേറ്റർ ഉണ്ട് അത് ഒരു ബസർ ആണ് ഞങ്ങൾ ഈ ബസർ സൂക്ഷിച്ചിരിക്കുന്നു കാരണം വാതകങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കുകയാണെങ്കിൽ സെൻസർ അത് എടുക്കാൻ പോകുന്നുവെന്നും ഈ ബസർ ഗ്യാസിന്റെ യഥാർത്ഥ സാന്ദ്രതയായ എൽപിജി വാതകം കാണിക്കാൻ പോകുന്നുവെന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് മറ്റേതെങ്കിലും വാതകമാകാം അത് വർദ്ധിച്ചു അതിനാൽ ഇത് ചെയ്യുന്നത് ഇതാണ് തുടർന്ന് ഞങ്ങൾക്കുണ്ട് അതിനാൽ ഈ സെൻസിംഗ് ഇവിടെ ചെയ്യുന്നത് ഈ സെൻസർ വഴിയാണ് തുടർന്ന് ഈ സെൻസർ ഈ ഡാറ്റ അയയ്ക്കുന്നു ഞങ്ങളുടെ പക്കലുള്ള ഈ മൈക്രോകൺട്രോളർ യൂണിറ്റ് ഇവിടെ ചില പ്രോസസ്സിംഗ് നടത്തുന്നു അതിനുശേഷം ഈ ഡാറ്റ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് അയയ്ക്കുന്നു അതിനാൽ ഇത് ഒരു സൈറ്റാണെന്നും ഇത് മറ്റൊരു സൈറ്റാണെന്നും നമുക്ക് പറയാം അതിനാൽ ഇത് ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് അയയ്ക്കുന്നു ഇതിനായി ഞങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ആശയവിനിമയ മൊഡ്യൂളുകൾ ഇവിടെയുണ്ട് ഇത് ഒന്ന് ഇത് മറ്റൊന്ന് നമുക്ക് പറയാം ഇതാണ് അയക്കുന്നവൻ ഇതാണ് സ്വീകർത്താവ് ഈ റിസീവർ യൂണിറ്റ് മനസ്സിലാക്കാൻ പോകുന്നു അയച്ചയാളുടെ യൂണിറ്റ് അയച്ച സെൻസറുമായി ബന്ധിപ്പിച്ച ഈ ഡാറ്റയെല്ലാം ശേഖരിക്കാൻ പോകുന്നു അത് റിസീവറിൽ നിന്ന് എടുക്കുകയും അവിടെ നിന്ന് നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് അയയ്ക്കുകയും ചെയ്യും അതിനാൽ വാതകങ്ങളുടെ നിരീക്ഷണം നടത്താൻ പോകുന്ന നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് ഇത് അയയ്ക്കാൻ പോകുന്നു നമുക്ക് ഈ ഉദാഹരണം നോക്കാം അതിനാൽ എൽപിജി ഗ്യാസിന്റെ കുറച്ച് സാന്ദ്രത ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ശബ്ദം വന്നു അതിനാൽ ഈ ബസർ മുഴങ്ങി അതിനാൽ ഞങ്ങൾ ഈ ഡാറ്റ നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഇത് അയച്ചയാളാണ് കാരണം ഇവിടെ കുറച്ച് പുക കണ്ടെത്തി അല്ലെങ്കിൽ ചില വാതകങ്ങൾ കണ്ടെത്തി കുറച്ച് കാർബൺ മോണോക്സൈഡ് വാതകം കണ്ടെത്തി അത് അയയ്ക്കുകയും റിസീവർ ഇവിടെ സ്വീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഇവിടെയുള്ള റിസീവർ ആണ് അത് ഇവ സ്വീകരിച്ചതായി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ മുകളിൽ കാണുന്നതുപോലെ ഇവിടെ അതിനാൽ നമുക്ക് ഒരിക്കൽ കൂടി ഇത് പരീക്ഷിക്കാം അതിനാൽ ഇത് അയച്ചയാളാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ചില വാതകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇത് റിസീവർ ആണെന്നും കാണിക്കുന്നു അത് ആ മൂല്യങ്ങളും സ്വീകരിക്കുന്നു ഈ വാതകങ്ങളുടെ ഈ സാന്ദ്രത കണ്ടെത്തുന്ന നിയന്ത്രണ കേന്ദ്രമാണിതെന്നും ഈ നിരീക്ഷണം എങ്ങനെ നടത്താമെന്നും നമുക്ക് അനുമാനിക്കാം ഖനന വ്യവസായങ്ങളിൽ മാത്രമല്ല മറ്റേതെങ്കിലും രാസ വ്യവസായം പോലെയുള്ള മറ്റ് വ്യവസായങ്ങളിലും അല്ലെങ്കിൽ ഭൂഗർഭ ഖനികൾക്കായുള്ള ഗ്യാസ് മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ പോലെ ഗ്യാസ് നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ട എവിടെയാണെങ്കിലും ഗ്യാസ് നിരീക്ഷണം എങ്ങനെ നടത്താമെന്ന് കാണിക്കുന്ന വളരെ ലളിതമായ ഒരു ആപ്ലിക്കേഷനാണിത് IIoT യുടെ മറ്റൊരു ആപ്ലിക്കേഷൻ നമുക്ക് പരിഗണിക്കാം നമുക്ക് ആരോഗ്യ സംരക്ഷണ വ്യവസായം പരിഗണിക്കാം ഉദാഹരണത്തിന് ആശുപത്രികളിൽ വ്യത്യസ്ത രോഗികളുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ പരിപാലന വിദഗ്ധർ രോഗികളുടെ അവസ്ഥ തത്സമയം നിരീക്ഷിക്കുന്നതും മറ്റും പലപ്പോഴും വളരെ പ്രധാനമാണ് അതിനാൽ നിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരമ്പരാഗത സാങ്കേതികവിദ്യ അത് ബുദ്ധിമുട്ടാണ് കാരണം പരമ്പരാഗതമായി സംഭവിക്കേണ്ടത് ഡോക്ടർമാരും നഴ്സുമാരും അല്ലെങ്കിൽ മറ്റ് ആരോഗ്യപരിപാലന വിദഗ്ധരും ആണ് ഞങ്ങൾ ഇടയ്ക്കിടെ രോഗിയെ സന്ദർശിക്കേണ്ടിവരും തുടർന്ന് രോഗിയുടെ ആരോഗ്യം ഒന്ന് നിരീക്ഷിക്കുക അതിനേക്കാൾ മികച്ചത് രോഗിയുടെ വേഡ് സൈറ്റിൽ വ്യത്യസ്ത സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ചില വ്യത്യസ്ത മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ആ സെൻസറുകൾ ഒറ്റപ്പെട്ട സെൻസറുകളാണ് അവ സാധാരണയായി കണക്റ്റുചെയ്ത സെൻസറുകളല്ല അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് നൽകാൻ കഴിയും എന്നതാണ് രോഗിയെ നിരീക്ഷിക്കുന്ന ഫിസിയോളജിക്കൽ പാരാമീറ്റർ മൂല്യത്തിന്റെ മൂല്യം അവർക്ക് കാണിക്കാൻ കഴിയും അതിനാൽ IIoT IoT എന്നിവയുടെ വരവോടെ പൊതുവേ രോഗിയുടെ ആരോഗ്യനില തുടർച്ചയായി നിരീക്ഷിക്കുന്നത് ഇപ്പോൾ സാധ്യമാണ് അതിനാൽ മുമ്പത്തെ ഉദാഹരണം പോലെ രോഗിയുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ ഉപയോഗിക്കാവുന്ന രണ്ട് അടിസ്ഥാന സെൻസറുകൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു ഇവിടെ നിങ്ങൾ കാണുന്നത് താപനില സെൻസറാണ് ഇതാണ് ശരീര താപനില സെൻസർ ഇതാണ് പൾസ് ഓക്സിമീറ്റർ എന്നറിയപ്പെടുന്നത് അതിനാൽ പൾസ് ഓക്സിമീറ്റർ അടിസ്ഥാനപരമായി രോഗിയുടെ രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ അതുപോലെ പൾസ് നിരക്ക് എന്നിവ അളക്കുന്നു ഈ രണ്ട് സെൻസറുകളും ഇത് എടുത്തിട്ടുണ്ട് രോഗികളുടെ അവസ്ഥ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് മറ്റ് ഫിസിയോളജിക്കൽ മോണിറ്ററിംഗ് സെൻസറുകൾ ഉപയോഗിക്കാം അതിന്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തത്സമയം തത്സമയം തുടർച്ചയായി രോഗികളുടെ അവസ്ഥ നിരീക്ഷിക്കാനും മുന്നറിയിപ്പ് നൽകാനും കഴിയും രോഗിയുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും നിർണായകതയുണ്ടെങ്കിൽ ഡോക്ടർമാർക്ക് സൃഷ്ടിക്കാവുന്നതാണ് അതിനാൽ ഇത് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ ഉപയോഗപ്രദമായ ഉപകരണമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഈ കേസിൽ ഇത് എങ്ങനെ ചെയ്യാം അതിനാൽ ഈ ശരീര താപനില സെൻസർ നമുക്ക് പറയാം ഇത് ഒരു രോഗിയുമായി ഘടിപ്പിച്ചിരിക്കുന്നു ശരീരത്തിന്റെ ഊഷ്മാവ് കാണിക്കാൻ ഞാൻ അത് അമർത്തിപ്പിടിച്ചിരിക്കുന്നു അതിനാൽ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് പോലെ എനിക്ക് ഇവിടെയുള്ളത് അത് വർദ്ധിക്കുന്ന താപനില മൂല്യം ഇവിടെ കാണാൻ കഴിയും ഇതാണ് താപനില വായന ഇത് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഒരു രോഗിക്ക് വേണ്ടിയുള്ള ഡോക്ടർമാരുടെ പാനലിൽ അല്ലെങ്കിൽ നിരവധി രോഗികൾക്കായി ഇത് വിപുലീകരിക്കുകയും മറ്റ് വിവിധ രോഗികളുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കാൻ സ്കെയിൽ ചെയ്യുകയും ചെയ്യാം അതിനാൽ ഇതാണ് താപനില പ്ലോട്ട് അതുപോലെ തന്നെ ഈ പൾസ് ഓക്സിമീറ്ററും അവിടെയുണ്ട് ഒരു രോഗിക്ക് ഇത് ഇതുപോലെ ഘടിപ്പിക്കാനാകുമെന്ന് നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ സ്ക്രീനിൽ എനിക്ക് രണ്ട് കാര്യങ്ങളുടെ മൂല്യം ലഭിക്കണം അതിനാൽ ഞാൻ ഇപ്പോൾ പൾസ് ഓക്സിമീറ്റർ സെൻസർ അതിലേക്ക് വിരൽ കയറ്റി പൾസ് ഓക്സിമീറ്റർ സെൻസർ രണ്ട് കാര്യങ്ങൾ അളക്കാൻ സഹായിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്ന് രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ മറ്റൊന്ന് പൾസ് നിരക്ക് അതിനാൽ ഇപ്പോൾ കൺട്രോൾ വ്യൂ നോക്കുന്നു അതിനാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതുപോലെ ഇത് നീലയാണ് അടിസ്ഥാനപരമായി ഹൃദയമിടിപ്പ് ഇതാണ് രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഈ രണ്ട് മൂല്യങ്ങളും കാലക്രമേണ ക്രമാനുഗതമായി രൂപപ്പെടുത്തുന്നു ഈ താപനില മൂല്യം ഇപ്പോഴും തുടരുന്നു കുറവാണ് കാരണം ഞാൻ അത് ഉപേക്ഷിച്ചു പക്ഷേ താപനിലയും താപനില മൂല്യവും അളക്കാൻ ഞാൻ അത് വീണ്ടും എന്റെ വിരലിൽ ഇടാം ശരീര താപനില മൂല്യം വർദ്ധിക്കുന്നു അതിനാൽ ഇത് വിവിധ ഹെൽത്ത് കെയർ ഫിസിയോളജിക്കൽ മോണിറ്ററിംഗ് സെൻസറുകളുടെ ഒരു പ്രയോഗമാണ് ഇത് ആശുപത്രികൾ പോലുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരും നഴ്സുമാരും വിവിധ രോഗികളുടെ ആരോഗ്യസ്ഥിതി തുടർച്ചയായി നിരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കാം നമുക്ക് ഇൻഡസ്ട്രിയൽ ഐഒടിയുടെ വിശദാംശങ്ങൾ നോക്കാം അതിനാൽ വ്യത്യസ്ത വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്കായി ഇന്റർനെറ്റ് ഓഫ് തിംഗ്സിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഇൻഡസ്ട്രിയൽ ഐഒടി എന്ന് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനാൽ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ ഉൽപ്പാദനം കൃഷി ആരോഗ്യ സംരക്ഷണം എന്നിങ്ങനെ പലതായിരിക്കാം അതിനാൽ അടിസ്ഥാനപരമായി വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്കായുള്ള ഐഒടിയെക്കുറിച്ചാണ് IIoT സംസാരിക്കുന്നത് വ്യവസായത്തിലെ സുരക്ഷ തൊഴിലാളികളുടെ സുരക്ഷ എർഗണോമിക് അവസ്ഥകൾ തുടങ്ങിയ വ്യവസായങ്ങളിലെ തൊഴിൽ സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ഈ IIoT ഉപയോഗിക്കുക എന്നതാണ് മൊത്തത്തിലുള്ള ആശയം വ്യവസായവും അങ്ങനെ സുരക്ഷാ എർഗണോമിക് പ്രശ്നങ്ങളും അതിനാൽ മെഷീൻ ആയുസ്സ് വർദ്ധിപ്പിക്കുക പ്രവർത്തനക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുക കൂടാതെ മറ്റു പലതും വ്യാവസായിക ഐഒടിയുടെ വിവിധ ഉപയോഗങ്ങളുണ്ട് അതിനാൽ IIoT യും അതിന്റെ പ്രാകൃതവും മുമ്പും ഉണ്ടായിരുന്നു ഈ പുതിയ സന്ദർഭത്തിൽ IIoT കൂടുതൽ രസകരമാകുന്നു ഐഐഒടി പ്രാകൃതമാണ് വ്യവസായത്തിൽ വളരെക്കാലമായി നിലനിൽക്കുന്ന ഓട്ടോമേഷൻ പതിറ്റാണ്ടുകളായി വ്യവസായങ്ങൾ വളരെക്കാലമായി ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നു IIoT യും ഓട്ടോമേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ് ഈ വ്യത്യാസങ്ങൾ സെൻസിംഗുമായി ബന്ധപ്പെട്ട് മൂന്ന് വ്യത്യസ്ത പാരാമീറ്ററുകൾ അനലിറ്റിക്സ് ഈ ഐടി ടൂളുകൾ മെത്തഡോളജികൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ നമുക്ക് ഇവ ഓരോന്നായി എടുക്കാം അതിനാൽ സെൻസിംഗ് അനലിറ്റിക്സും രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ വ്യത്യാസങ്ങൾ അവയ്ക്ക് അവരുടേതായ വ്യത്യസ്ത വശങ്ങളുണ്ട് അതിനാൽ നമുക്ക് ആദ്യം സർവ്വവ്യാപിയായ സംവേദനത്തിൽ നിന്ന് ആരംഭിക്കാം അതിനാൽ IIoT ജനപ്രിയമാകുന്നതിന് മുമ്പ് പരമ്പരാഗത ഓട്ടോമേഷനിൽ മെഷീനുകളുടെ അവസ്ഥ നിരീക്ഷിക്കാൻ സെൻസറുകളും ആക്യുവേറ്ററുകളും ഉപയോഗിച്ചിരുന്നു ഇത് പുതിയതല്ല ഒരു യന്ത്രത്തിന്റെ ഒരു പ്രത്യേക ഘടകം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പോലുള്ള നിർണായക ഘടകങ്ങൾ നിരീക്ഷിക്കാൻ വ്യത്യസ്ത സെൻസറുകൾ ഉപയോഗിക്കുന്നു മറ്റ് ചില ഘടകങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് പുതിയതല്ലെങ്കിൽ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും മെച്ചപ്പെടുത്താനും ഒപ്റ്റിമൈസ് ചെയ്യാനും IIoT സെൻസറുകളും ആക്യുവേറ്ററുകളും എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് അവ വളരെക്കാലമായി നിലവിലുണ്ട് എന്നാൽ പുതിയതായി വന്നത് ഒരേ സമയം വ്യത്യസ്ത മെഷീനുകളുടെ അവസ്ഥ നിരീക്ഷിക്കാനും ഈ മെഷീനുകൾ ഓരോന്നും തങ്ങൾക്കിടയിലും ചില കേന്ദ്ര പോയിന്റുകളിലേക്കും ഡാറ്റ പങ്കിടാനും കഴിയുന്നതാണ് എന്നത് ഏറ്റവും പുതിയ ഒന്നാണ് അതിനാൽ ഈ മുഴുവൻ പാക്കേജിംഗും പുതിയതാണ് അതിനാൽ ഞങ്ങൾ ഡാറ്റ പ്രയോജനപ്പെടുത്തുകയും മുകളിൽ ചില വിപുലമായ അനലിറ്റിക്സ് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ സർവ്വവ്യാപിയായ സെൻസിംഗ് അടിസ്ഥാനപരമായി IIoT സന്ദർഭത്തിൽ ഉപയോഗശൂന്യമാണ് ഇപ്പോൾ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരു ഒറ്റപ്പെട്ട ഫാഷനിൽ ഉണ്ടായിരുന്നു എന്നാൽ IIoT യുടെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരേ വ്യവസായത്തിലെയും വ്യത്യസ്ത വ്യവസായങ്ങളിലെയും സ്ഥലങ്ങളിലെയും വ്യത്യസ്ത മെഷീനുകളിൽ നിന്ന് വരുന്ന ഒരു വലിയ അളവിലുള്ള ഡാറ്റയെക്കുറിച്ചാണ് എന്നിട്ട് അതിന്റെ സമഗ്രമായ വീക്ഷണം നേടുകയും ഈ കണക്റ്റിവിറ്റി പ്രശ്നം മൂലമാണ് ഇതെല്ലാം സാധ്യമാകുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് അതിനാൽ ഈ വ്യത്യസ്ത മെഷീനുകൾ വ്യത്യസ്ത സ്ഥലങ്ങൾ തമ്മിലുള്ള ഈ കണക്റ്റിവിറ്റി കാരണം ഈ വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥവും വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന ഈ വ്യത്യസ്ത യന്ത്രങ്ങളുടെ അവസ്ഥയും മനസ്സിലാക്കാൻ ഈ വോളിയം ഡാറ്റയും വ്യത്യസ്ത അനലിറ്റിക്സ് ബുദ്ധിപരമായി പ്രവർത്തിപ്പിക്കുന്നതും ഇപ്പോൾ സാധ്യമാണ് ഈ ഐടി രീതികളുമായി ബന്ധപ്പെട്ട് ഓട്ടോമേഷൻ ഐടിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഇത് വളരെക്കാലമായി വീണ്ടും നിലവിലുണ്ട് ഐടി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി പ്രത്യേകിച്ച് നെറ്റ്വർക്കിംഗ് വശം ആശയവിനിമയം നെറ്റ്വർക്കിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത ഓട്ടോമേഷൻ സാങ്കേതികതകളെ IIoT അടിസ്ഥാനപരമായി പരിഷ്ക്കരിക്കുന്നു ഈ പരിഷ്ക്കരണം ടാലന്റ് പൂളിന്റെ മൂന്ന് പ്രധാന നേട്ടങ്ങൾ നൽകുന്നു സ്റ്റാൻഡേർഡൈസേഷൻ ഈ എല്ലാ വ്യവസായങ്ങളിലും ഇതിനകം ലഭ്യമായ ഐടി ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്നിവയുടെ പ്രവേശനക്ഷമത ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ഐടി ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വളരെക്കാലമായി അവിടെയുണ്ട് ഞങ്ങൾ ഒന്നും സംസാരിക്കുന്നില്ല ഇപ്പോൾ പുതിയതാണ് എന്നാൽ ഈ കണക്റ്റിവിറ്റി പുതിയതാണ് കണക്റ്റിവിറ്റി പ്രശ്നവും സ്കെയിലിംഗും നേരത്തെ ഈ മെഷീനുകളിൽ ഒറ്റപ്പെട്ട രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഈ മെഷീനുകൾക്കിടയിലുള്ള നെറ്റ്വർക്കിംഗ് ഈ ഐടി ഇൻഫ്രാസ്ട്രക്ചറുകൾ പാക്കേജിംഗിന്റെ സഹായത്തോടെ സെൻസറുകൾ ആക്യുവേറ്ററുകൾ എന്നിവയെക്കുറിച്ചാണ് ഒരു IIoT യുടെ പശ്ചാത്തലത്തിൽ പുതിയ ആശയമായി മാറിയത് ഇതാണ് അത് ഓട്ടോമേഷൻ പരമ്പരാഗത ഓട്ടോമേഷൻ പ്ലസ് നെറ്റ്വർക്ക് സെൻസിംഗ് ആക്ച്വേഷൻ തീരുമാനങ്ങൾ എടുക്കൽ എന്നിവയാണ് കൂടാതെ IIoT ഇങ്ങനെയാണെന്ന് ഞാൻ നിർവ്വചിക്കും ഒറ്റപ്പെട്ട കമ്പ്യൂട്ടറുകൾ കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ സഹായത്തോടെയുള്ള പരമ്പരാഗത ഓട്ടോമേഷനാണ് IIoT കണക്റ്റുചെയ്ത രീതിയിൽ ആ സെൻസിംഗ് ആക്ച്വേഷൻ തീരുമാനമെടുക്കൽ എന്നിവയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു അതിനാൽ IIoT വിന്യാസത്തിൽ വ്യത്യസ്ത വെല്ലുവിളികൾ ഉണ്ട് ഡാറ്റ സംയോജന വെല്ലുവിളികൾ ഉണ്ട് അതിനാൽ നമ്മൾ വലിയ അളവിലുള്ള യന്ത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വ്യത്യസ്ത യന്ത്രങ്ങൾക്ക് അവരുടേതായ വൈവിധ്യവും വൈവിധ്യമാർന്ന ഡാറ്റയും ഉയർന്ന അളവിലും വലിയ വ്യത്യസ്ത തരം ഇനങ്ങളിലുമുള്ള ഈ വൈവിധ്യമാർന്ന ഡാറ്റയുടെ സംയോജനവും ഉണ്ട് IIoT പശ്ചാത്തലത്തിൽ ഇത്തരം ഡാറ്റകളുടെ സംയോജനം ഒരു വലിയ വെല്ലുവിളിയാണ് വ്യാവസായിക പ്ലാന്റുകളിൽ പരമ്പരാഗത ഓട്ടോമേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല ഇൻഡസ്ട്രി 4 0 യുടെ പശ്ചാത്തലത്തിൽ സൈബർ സുരക്ഷയെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു അതിനാൽ സൈബർ സുരക്ഷ വളരെ പ്രധാനമാണ് കാരണം നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ ബന്ധിതമായ ഒരു ലോകത്തെക്കുറിച്ചാണ് അവിടെ വ്യത്യസ്ത യന്ത്രങ്ങൾ തങ്ങളും യന്ത്രങ്ങളും ആളുകളുമായി യന്ത്രങ്ങൾ മനുഷ്യരോട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരോട് എന്നിങ്ങനെയുള്ള ഒരു ലോകമാണ് അതിനാൽ മൊത്തത്തിലുള്ള നെറ്റ്വർക്കിൽ ഞങ്ങൾ ചില കേടുപാടുകൾ അവതരിപ്പിക്കാനും വ്യത്യസ്ത തരം ആക്രമണങ്ങൾ സാധ്യമാക്കാനും പുതിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട് മൂന്നാമത്തേത് IoT IIoT എന്നിവയിലെ സ്റ്റാൻഡേർഡൈസേഷന്റെ അഭാവമാണ് IoT യെ നിയന്ത്രിക്കുന്ന IoT യെ നിയന്ത്രിക്കുന്ന ഒരൊറ്റ മാനദണ്ഡവുമില്ല ഒരൊറ്റ മാനദണ്ഡവുമില്ല നിലവാരമില്ലായ്മയുണ്ട് ചില സ്റ്റാൻഡേർഡൈസേഷൻ ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ ഒരൊറ്റ മാനദണ്ഡവുമില്ല അതിനാൽ ഇത് അടിസ്ഥാനപരമായി IIoT യുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മൾ വ്യവസായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അടുത്തത് ലെഗസി ഇൻസ്റ്റാളേഷനുകളാണ് വ്യവസായങ്ങൾക്ക് വലിയ ലെഗസി മെഷീൻ ബേസ് ഉണ്ട് ഈ മെഷീനുകൾ ദശാബ്ദങ്ങളായി വിജയകരമായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ IIoT സംയോജിപ്പിക്കുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ പുതിയ സാങ്കേതികവിദ്യകൾക്കും പുതിയ മെഷീനുകൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് പിന്തുണ ഉണ്ടായിരിക്കണം ഇൻസ്റ്റാൾ ചെയ്ത പുതിയ സാങ്കേതികവിദ്യകൾ IIoT പിന്തുണയ്ക്കുന്നു കൂടാതെ അത് ലെഗസി ഇൻസ്റ്റാളേഷനുമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്നു അവസാനത്തെ വെല്ലുവിളി അടിസ്ഥാനപരമായി കഴിവുകളുടെ അഭാവം ഇതൊരു പുതിയ സാങ്കേതികവിദ്യയാണ് സമഗ്രമായി എല്ലാ ബിറ്റുകളും കഷണങ്ങളും അവിടെയുണ്ട് ഈ വ്യത്യസ്ത വ്യവസായങ്ങളിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്ര വൈദഗ്ധ്യമുള്ള മനുഷ്യശേഷി ഇല്ല അവർ ഈ പുതിയ സാങ്കേതികവിദ്യ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തിയുടെ അഭാവം കാരണം സാധ്യമായ വിവിധ പ്രശ്നങ്ങൾ ഉണ്ട് കഴിവുകളുടെ അഭാവമില്ലാതെ കേടുപാടുകൾ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താനും വ്യത്യസ്ത ആക്രമണങ്ങൾ നടത്താനും മൊത്തത്തിലുള്ള സിസ്റ്റത്തിന് ദോഷം വരുത്താനും കഴിയുന്ന വ്യത്യസ്ത ആക്രമണകാരികളെ ആകർഷിക്കാനും ഇത് സാധ്യമാണ് അതുവഴി ഈ IIoT സാങ്കേതികവിദ്യ സ്വീകരിച്ച ബിസിനസിന് നഷ്ടം സംഭവിക്കാം ഡാറ്റയുടെ അളവുമായി ബന്ധപ്പെട്ട് ഡാറ്റാ ഇന്റഗ്രേഷൻ വെല്ലുവിളികൾ ഉണ്ട് അത് വരുന്നു ഞങ്ങൾ ഡാറ്റയുടെ സങ്കീർണ്ണത ഡാറ്റയുടെ വൈവിധ്യം വരുന്നു ഒരു വലിയ വോളിയം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വലിയ വേഗതയിൽ തുടർച്ചയായി ഈ ഡാറ്റ വരുന്നു ഈ വ്യത്യസ്ത സെൻസറുകളും ആക്യുവേറ്ററുകളും അതിനാൽ ഈ ഡാറ്റ കൈകാര്യം ചെയ്യുക ഈ ഡാറ്റ വിശകലനം ചെയ്യുക എന്നത് വളരെ കഠിനമായ ജോലിയാണ് അതിനാൽ IIoT യുടെ ഈ ദത്തെടുക്കലും വളരെ നിസ്സാരമാണ് സൈബർ സുരക്ഷ എന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് വിവിധ ഉപകരണങ്ങളുടെ നന്നായി കണക്റ്റുചെയ്ത ഇന്റർനെറ്റ് പ്രവർത്തന ലോകത്തെക്കുറിച്ചാണ് വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന മെഷീനുകൾ ഞങ്ങൾ ഈ നെറ്റ്വർക്ക് സജ്ജീകരിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്ത സുരക്ഷാ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് അപകടസാധ്യതയുടെ പ്രശ്നങ്ങൾ വ്യത്യസ്ത സുരക്ഷാ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക വ്യത്യസ്ത തരം ആക്രമണകാരികളെ ആകർഷിക്കുക ഇത് തികച്ചും സാദ്ധ്യമാണ് കൂടാതെ സൈബർ സുരക്ഷയുമായോ വിവര സുരക്ഷയുമായോ സിസ്റ്റം സുരക്ഷിതവുമായോ ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ സ്വകാര്യത പ്രശ്നമാണ് അതിനാൽ ഈ വ്യത്യസ്ത മെഷീനുകളിൽ നിന്ന് സ്വയംഭരണാധികാരത്തോടെ ധാരാളം ഡാറ്റ ശേഖരിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് അതിനാൽ ഈ വ്യത്യസ്ത ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യതയെക്കുറിച്ച് ഒരാൾ ആശങ്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ വ്യക്തിഗത മെഷീനുകളിൽ നിന്ന് സ്വയമേവ ശേഖരിക്കുന്ന ഡാറ്റയുടെ സ്വകാര്യത അതിനാൽ മെഷീനുകളുടെ സ്വകാര്യത വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ വിവരത്തിനും സിസ്റ്റം സുരക്ഷയ്ക്കും ഒപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി മാറുന്നു ഉദാഹരണത്തിന് ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൽ ഡാറ്റ സമഗ്രത വളരെ അത്യാവശ്യമാണ് അതിനാൽ ശേഖരിക്കുന്ന ഡാറ്റ രോഗികളുടെ യഥാർത്ഥ ഡാറ്റ എന്നിവയിൽ കൃത്രിമം കാണിക്കാൻ ആർക്കും കഴിയില്ല അതിനാൽ വ്യക്തമായും ഈ പ്രത്യേക വീക്ഷണകോണിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൽ സുരക്ഷ വളരെ പ്രധാനമാണ് ഭക്ഷ്യവ്യവസായങ്ങളിലും ആരെങ്കിലും ആക്രമണം കമ്പനിയുടെ പ്രശസ്തിക്ക് ഹാനികരമാകുന്ന തരത്തിൽ ഡാറ്റ ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ അത്തരം ഡാറ്റ സുരക്ഷിതമാക്കണം അത് രഹസ്യമാക്കണം പവർ ഗ്രിഡുകൾ പോലെ വൈദ്യുതി മേഖലയിൽ പവർ സിസ്റ്റത്തിൽ പിടിമുറുക്കുക എന്നത് വളരെ എളുപ്പമാണ് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് പോലെയുള്ള വലിയ ആഘാതം സൃഷ്ടിക്കുകയും അത് സിസ്റ്റത്തെ തകർക്കുകയും വലിയ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യും അതിനാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സാധ്യമാണ് അതുപോലെ ഗതാഗതത്തിലും ഗതാഗതത്തിലും പൊതുവേ ഹൈവേ ഗതാഗതം ഏതൊരു രാജ്യത്തിന്റെയും സിരയുടെ തരമാണ് അതിനാൽ ഈ ഗതാഗത ഡൊമെയ്നിലെ IIoT ഇൻഫ്രാസ്ട്രക്ചറായി ഇത് മാറുന്നത് സുരക്ഷിതമാക്കുന്നതും വളരെ നിർണായകമാണ് അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡൈസേഷന്റെ കുറവുണ്ട് അതിനാൽ വലിയ ഓട്ടോമേഷൻ വിതരണ സ്ഥാപനങ്ങൾ ഓപ്പൺ സ്റ്റാൻഡേർഡൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനാൽ അവർക്ക് അവരുടേതായ വ്യത്യസ്തവും ഇഷ്ടാനുസൃതമാക്കിയതുമായ പരിഹാരങ്ങൾ ഉണ്ടായിരിക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കൂടാതെ ബിസിനസ്സ് ലാഭത്തിന്റെ കാര്യത്തിലും മറ്റും അതിന് പ്രായമുണ്ട് സ്റ്റാൻഡേർഡൈസേഷന്റെ ഈ മുഴുവൻ പ്രശ്നവും ശേഖരിക്കുന്ന ഈ വ്യത്യസ്ത ഉപകരണങ്ങളിൽ ഉപഭോക്താക്കൾ ആശ്രയിക്കുന്നത് കുറയ്ക്കും അതിനാൽ ചെറുകിട ഓട്ടോമേഷൻ വിതരണ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാനപരമായി ഈ വലിയ നടപടിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവില്ല സ്റ്റാൻഡേർഡൈസേഷന്റെ അഭാവം ഉപകരണത്തിന്റെ പരസ്പര പ്രവർത്തനക്ഷമത സെമാന്റിക് ഇന്ററോപ്പറബിളിറ്റി ഉപകരണത്തിന്റെ പരസ്പര പ്രവർത്തനക്ഷമത എന്നിവയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അതിനാൽ വ്യത്യസ്ത ഐഒടി ഉപകരണങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത മെഷീനുകൾ അവയ്ക്ക് പരസ്പരം സംസാരിക്കേണ്ടതുണ്ട് അവ സൃഷ്ടിച്ചത് വ്യത്യസ്ത വെണ്ടർമാർ ആണ് അതിനാൽ ഉപകരണ ലെവൽ ഇന്റർഓപ്പറബിളിറ്റി മനസ്സിലാക്കി എന്നാൽ നമ്മൾ സംസാരിക്കുന്ന സെമാന്റിക് ഇന്ററോപ്പറബിളിറ്റി എന്താണ് അർത്ഥശാസ്ത്രം എന്നാൽ അർത്ഥം അതിനാൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഈ വ്യത്യസ്ത ഉപകരണങ്ങൾ അവർക്ക് പരസ്പരം അർത്ഥവത്തായി സംസാരിക്കാൻ കഴിയണം അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് മനസിലാക്കാൻ അവർക്ക് കഴിയണം അതിനാൽ അതാണ് സെമാന്റിക് ഇന്ററോപ്പറബിളിറ്റിയും സുരക്ഷ സ്വകാര്യത പ്രശ്നങ്ങൾ സ്റ്റാൻഡേർഡൈസേഷൻ ആശങ്കകൾ എന്നിവയും ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് ലെഗസി ഇൻസ്റ്റാളേഷനുകൾ പരിഗണിക്കേണ്ട വളരെ നിർണായക വശമാണ് സാങ്കേതികവിദ്യ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു വ്യവസായങ്ങളിൽ സാങ്കേതിക വിദ്യകൾ ഉണ്ട് പതിറ്റാണ്ടുകളായി ആ പാരമ്പര്യം ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പുരോഗമിച്ച ചില സാങ്കേതികവിദ്യകളുണ്ട് അവലംബിക്കുന്ന ചില പുതിയ സാങ്കേതികവിദ്യകളുണ്ട് അതിനാൽ ഈ സാങ്കേതികവിദ്യകളെല്ലാം സ്വീകരിക്കണം ആ പൈതൃകമുള്ള പുതിയവ എല്ലാം ഒരുമിച്ച് സമന്വയിപ്പിക്കണം മുഴുവൻ സംയോജിത സംവിധാനത്തിലും ഒരു തരത്തിലുള്ള അപകടസാധ്യതകളും അവശേഷിപ്പിക്കാതെ അത് ഉപേക്ഷിക്കുക IIoT യുടെ ലോകത്തെക്കുറിച്ചുള്ള കഴിവുകളുടെ അഭാവം ഇതൊരു പുതിയ സാങ്കേതികവിദ്യയാണ് അതിനാൽ പുതിയ സാങ്കേതികവിദ്യ എന്നതിനർത്ഥം ഡാറ്റാ ഇന്റഗ്രേഷൻ മുതലായ IIoT അനുബന്ധ കഴിവുകളുള്ള തൊഴിലാളികളുടെ പരിമിതികൾ ഈ സാങ്കേതികവിദ്യകൾ IIoT യുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലും ഈ പുതിയ അനുബന്ധ സാങ്കേതികവിദ്യകൾ ഈ സാങ്കേതികവിദ്യകൾ പ്രകൃതിയിൽ പുതിയതാണ് അതിനാൽ തൊഴിലാളികൾക്ക് ഈ സാങ്കേതികവിദ്യകളെക്കുറിച്ച് വേഗതയേറിയതും വൈവിധ്യ പൂർണ്ണവുമായ അറിവ് ഉണ്ടായിരിക്കണം അതിനാൽ ആരോഗ്യ സംരക്ഷണ വ്യവസായം ഖനന വ്യവസായം നിർമ്മാണ വ്യവസായം ഗതാഗതം ലോജിസ്റ്റിക്സ് അഗ്നിശമന മലിനജലം സ്മാർട്ട് സിറ്റികൾ തുടങ്ങിയവയിലാണ് IIoT യുടെ വ്യത്യസ്ത പ്രയോഗങ്ങളെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ അതിനാൽ ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൽ ഡോക്ടർമാരുടെ വിവരങ്ങളുടെ ലഭ്യതയും ആവർത്തനവും ശരിയായ ഡോക്ടറെ തിരഞ്ഞെടുക്കാൻ രോഗികളെ സഹായിക്കുന്നു ഇൻറർനെറ്റിലേക്കുള്ള ഹെൽത്ത് കെയർ ഉപകരണങ്ങളുടെ കണക്റ്റിവിറ്റി അടിസ്ഥാനപരമായി ഇത് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിലെ IoT യുടെ വളരെ ചെറിയ തോതിലും പ്രയോഗത്തിലും ഞങ്ങൾ കണ്ടത് ഇതാണ് അതിനാൽ തുടക്കത്തിൽ തന്നെ ഈ താപനില സെൻസറും പൾസ് ഓക്സിമീറ്റർ സെൻസറും ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു കൂടാതെ കണക്റ്റുചെയ്ത ഒരു നെറ്റ്വർക്കിലൂടെ ഈ ഡാറ്റ കൂടുതൽ മൂല്യനിർണ്ണയത്തിനും നിരീക്ഷണത്തിനും മറ്റും നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് അയയ്ക്കും അതിനാൽ ഇത് അടിസ്ഥാനപരമായി ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിൽ IIoT യുടെ വളരെ അടിസ്ഥാനപരമായ ഒരു രൂപമാണ് ഖനന വ്യവസായവും ഗ്യാസ് നിരീക്ഷണവും കൽക്കരി ഖനികളിലെ വാതക നിരീക്ഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ മീഥെയ്ൻ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളുടെ സാന്ദ്രത എത്രയാണെന്ന് നിരീക്ഷിക്കാൻ ഞാൻ കാണിച്ച ഉദാഹരണം അതിനാൽ ഒരു IIoT അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെ ഇത് സാധ്യമാകും അതിനാൽ ഖനന വ്യവസായത്തിൽ ഐഐഒടി സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നത് ദുരന്ത മുന്നറിയിപ്പ് ഖനിത്തൊഴിലാളികളുടെ ജോലി സാഹചര്യം തത്സമയം തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കും സാധാരണ സമയത്തും അടിയന്തര സാഹചര്യങ്ങളിലും ഖനിത്തൊഴിലാളികളെ കണ്ടെത്തുന്നതും നിരീക്ഷിക്കുന്നതും ഖനിയിൽ തീപിടുത്തമുണ്ടായാൽ ഖനിത്തൊഴിലാളികളെ കണ്ടെത്തുന്നതും നിരീക്ഷിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണെന്നും ഐഐഒടിക്ക് അത് ചെയ്യാൻ സഹായിക്കാനും കഴിയും അതിനാൽ കാര്യക്ഷമമായ രീതിയിൽ സുരക്ഷിതത്വവും ഖനന വ്യവസായത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലും IIoT സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് നിർമ്മാണ വ്യവസായത്തിൽ വ്യത്യസ്ത ഉപകരണങ്ങൾ വ്യത്യസ്ത യന്ത്രങ്ങൾ ഉപകരണങ്ങൾ തൊഴിലാളികൾ വിതരണ ശൃംഖല വർക്ക് പ്ലാറ്റ്ഫോം എന്നിവയുടെ പരസ്പര ബന്ധവും സംയോജനവും അതിനാൽ ഇവയെല്ലാം സംയോജിപ്പിച്ച് പ്രവർത്തന ചെലവ് കുറയ്ക്കാനും തൊഴിലാളികളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും ജോലിസ്ഥലത്തെ മെച്ചപ്പെട്ട സുരക്ഷ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ വ്യവസായങ്ങളിലെ മാലിന്യങ്ങൾ കുറയ്ക്കൽ അവസാനം എന്നിവ നൽകുന്ന ഒരു സ്മാർട്ട് നിർമ്മാണ പ്ലാറ്റ്ഫോം ഉണ്ടാക്കും ടു എൻഡ് ഓട്ടോമേഷൻ ഇവയെല്ലാം നിർമ്മാണ വ്യവസായത്തിലെ IIoT യിൽ ഈ എല്ലാ ഉപകരണങ്ങളുടെയും പരസ്പര ബന്ധത്തിന്റെയും സംയോജനത്തിന്റെയും വ്യത്യസ്ത നേട്ടങ്ങളാണ് ഗതാഗതവും ലോജിസ്റ്റിക്സും അതുപോലെ ഉപകരണങ്ങൾ എഞ്ചിനുകൾ കണക്റ്റുചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ട്രാക്കിംഗ് വിന്യസിച്ചിരിക്കുന്ന സെൻസറുകൾ ജിപിഎസ് എന്നിവ എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ കഴിയും അതിനാൽ ഇത്തരത്തിലുള്ള ട്രാക്കിംഗ് ഉപകരണങ്ങൾ ട്രാക്കിംഗ് സെൻസറുകൾ ഒരു പ്രത്യേക ലോജിസ്റ്റിക് ആപ്ലിക്കേഷനിൽ വ്യത്യസ്ത ട്രക്കുകൾ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കാം ഈ വ്യത്യസ്ത ട്രക്കുകൾ ഹൈവേയിൽ ഏത് സ്ഥാനത്താണ് ഉള്ളത് അവ എത്ര സമയം ഹൈവേയിൽ വിശ്രമിക്കുന്നു അവർക്ക് വേണ്ടത്ര ഉറക്കം ഉണ്ടോ അല്ലെങ്കിൽ ഈ വ്യത്യസ്ത വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് വേണ്ടത്ര ഉറക്കമുണ്ടോ ഇല്ലയോ എന്നതും ഈ ട്രക്കുകളുടെ അവസ്ഥ ട്രക്കുകളുടെ അവസ്ഥ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമാണോ അതോ എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടോ എന്നതിന് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് IIoT സാങ്കേതികവിദ്യകളുടെ സഹായത്തോടെയും വാഹനങ്ങൾ പ്രവർത്തിപ്പിക്കാം അതിനാൽ ഒപ്റ്റിമൽ ഷെഡ്യൂളിംഗ് റദ്ദാക്കലുകളും കാലതാമസങ്ങളും കുറയ്ക്കുന്നതിലൂടെയും മൊത്തത്തിലുള്ള ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിലൂടെയും ഞങ്ങൾ നല്ല ഉപഭോക്തൃ സേവനങ്ങൾ നൽകും അതിനാൽ ഉപകരണങ്ങളുടെ ശരിയായ അറ്റകുറ്റപ്പണി ഓൺബോർഡ് യാത്രക്കാർക്കും മെഷീനുകൾക്കും ഞങ്ങൾ മെച്ചപ്പെട്ട സുരക്ഷ നൽകുകയും അതുവഴി മെയിന്റനൻസ് ചെലവ് കുറയ്ക്കുകയും ചെയ്യും വിവിധ IIoT സാങ്കേതികവിദ്യകളുടെ സെൻസർ നെറ്റ്വർക്കുകളുടെ ഉപയോഗവും അഗ്നിശമന സേനയെ ആകർഷിക്കുന്നു RFID ടാഗുകൾ ഉപയോഗിച്ച് വ്യാവസായിക വർക്ക്സ്പെയ്സിലോ അല്ലെങ്കിൽ വ്യത്യസ്ത കെട്ടിടങ്ങൾ വീടുകളിലും മറ്റും തീപിടിത്തങ്ങൾ തത്സമയം നിരീക്ഷിക്കൽ കൂടാതെ വ്യത്യസ്ത ഇൻകമിംഗ് ഡിസർട്ടറുകളെക്കുറിച്ചുള്ള മുൻകൂർ മുന്നറിയിപ്പ് എന്നിവയും സാധ്യമാകും അഗ്നിശമന ആപ്ലിക്കേഷൻ ഡൊമെയ്നിലെ IIoT ഉപയോഗത്തിന്റെ സഹായത്തോടെ അവസാനത്തെ കാര്യം ഈ വ്യത്യസ്ത തകരാറുകളുടെ യാന്ത്രികവും വേഗത്തിലുള്ളതുമായ രോഗനിർണയം അത് സംഭവിക്കാം IIoT സാങ്കേതികവിദ്യകളുടെ ഉപയോഗത്തിന്റെ സഹായത്തോടെ കാര്യക്ഷമമായും വേഗത്തിലും നടപ്പിലാക്കാൻ കഴിയും അതിനാൽ ഉപകരണങ്ങൾ തമ്മിലുള്ള കണക്റ്റിവിറ്റി മെച്ചപ്പെടുത്തൽ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തൽ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ ആസ്തി വിനിയോഗം ഒപ്റ്റിമൈസ് ചെയ്യൽ പുതിയ തൊഴിലവസരങ്ങളും ബിസിനസ് അവസരങ്ങളും സൃഷ്ടിക്കൽ പ്രവർത്തന സമയം കുറയ്ക്കൽ തുടങ്ങിയവയുടെ വ്യത്യസ്ത നേട്ടങ്ങളാണിവ അതിനാൽ വിദൂര രോഗനിർണ്ണയവും വിദൂര രോഗനിർണ്ണയവും എന്തിന്റെ വിദൂര രോഗനിർണ്ണയവും വ്യത്യസ്തമായ മറ്റ് ഗുണങ്ങളുണ്ട് യന്ത്രങ്ങളുടെ വിദൂര രോഗനിർണയം ചെലവ് കാര്യക്ഷമത തൊഴിലാളികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കൽ ഇത് തൊഴിലാളി സുരക്ഷാ എർഗണോമിക് പ്രശ്നങ്ങളാണ് IoT സാങ്കേതികവിദ്യകൾ ധാരാളം ആപ്ലിക്കേഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ വ്യത്യസ്ത IIoT സാങ്കേതികവിദ്യകൾ സ്വീകരിച്ചുകൊണ്ട് വ്യവസായങ്ങളിലെ തൊഴിലാളികളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനായി IoT മെച്ചപ്പെടുത്തുന്നതിനായി ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന വ്യത്യസ്ത പ്രോജക്ടുകൾ ഉണ്ട് അതിനാൽ IIoT എന്നത് വളരെ വാഗ്ദാനമായ ഒരു സാങ്കേതികവിദ്യയാണ് അതിൽ വ്യത്യസ്തമായ ആകർഷകമായ സവിശേഷതകളുണ്ട് എന്നാൽ അതേ സമയം കടന്നുപോകേണ്ട നിരവധി തടസ്സങ്ങളുണ്ട് അത് ഭാവിയിൽ അർത്ഥമാക്കുന്നില്ല ഈ തടസ്സങ്ങൾ തരണം ചെയ്യേണ്ട വിവിധ വെല്ലുവിളികളാണ് IIoT യുടെ ഭാവി എന്നല്ല ഇതിനർത്ഥം വാസ്തവത്തിൽ ഇന്ത്യയിലെയും ലോകമെമ്പാടുമുള്ള എല്ലാ വ്യവസായങ്ങളിലും ഐഐഒടി സ്വീകരിക്കുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് ക്രമേണ ഓരോ ദിവസവും IIoT സാങ്കേതികവിദ്യകളുടെ ദത്തെടുക്കൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഇത് ഇനിയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ വ്യത്യസ്ത വ്യവസായങ്ങൾ ഉള്ള വളരെ നന്നായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലോകം നമുക്ക് കാണാൻ കഴിയും ഈ വ്യത്യസ്ത വ്യവസായങ്ങൾ അഭിസംബോധന ചെയ്യുന്ന വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ധാരാളം ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നതിന് ധാരാളം ഡാറ്റയിൽ മനസ്സിൽ ഇടംപിടിക്കാൻ വിപുലമായ അനലിറ്റിക്സ് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഈ റഫറൻസുകളിൽ ചിലത് ഇവയാണ് ഇതോടെ ഞങ്ങൾ അവസാനിക്കും